ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൻറെ പരിധിയിൽ വരുന്ന എക്സ്ക്ളൂസീവായിട്ടുള്ള അവകാശങ്ങളുടെ കൂട്ടത്തെ പറ്റിയാണ് നമ്മൾ ഇതുവരെ സൂചിപ്പിച്ചത് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി വ്യത്യസ്തമായിരിക്കുന്നതിനനുസരിച്ച് ഈ അവകാശങ്ങൾ വ്യത്യാസമുള്ളതായിരിക്കും ഈ അവകാശം കോപ്പി റൈറ്റ് ആണെങ്കിൽ അത് കോപ്പി റൈറ്റ് ഉടമസ്ഥന് അവ അച്ചടിക്കാനും പ്രസാധനം ചെയ്യാനും അവതരിപ്പിക്കാനും പാട്ട് സിനിമ പോലുള്ള കലാപരമായ പ്രോപ്പർട്ടി ആണെങ്കിൽ അവ ഫിലിം ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും നിശ്ചിത വർഷത്തേക്ക് അവകാശം നൽകുന്നു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടത് കോപ്പി റൈറ്റിൽ മാത്രം ഉൾക്കൊണ്ടിരിക്കുന്ന അവകാശമാണ് വിവിധ ഇനത്തിൽപ്പെട്ട അനേകം പകർപ്പുകൾ നിർമ്മിക്കാനുള്ള അവകാശം ട്രേഡ് മാർക്കിൽ മാത്രം ഉൾക്കൊണ്ടിരിക്കുന്ന അവകാശം എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്തത ഒരു ചിഹ്നമോ വാക്കോ ഒരു സ്ഥാപനത്തെയോ ഉൽപ്പന്നത്തെയോ ഒരു സേവനത്തെയോ പ്രതിനിധാനം ചെയ്യുന്നു ട്രേഡ് മാർക്കിൽ ട്രേഡ് മാർക്ക് അവകാശിയുടെ അവകാശമാണ് തൻറെ സ്ഥാപനത്തെയോ ഉൽപ്പന്നത്തെയോ സേവനത്തെയോ പ്രതിനിധാനം ചെയ്യുന്ന ചിഹ്നങ്ങളോ വാക്കുകളോ രൂപപ്പെടുത്തുക എന്നുള്ളത് ഉദാഹരണമായി പറയുകയാണെങ്കിൽ മെർസിഡസ് ബെൻസ് ലോഗോ ഇതുവഴി നിങ്ങൾക്ക് വളരെ വ്യത്യസ്തമായ ഒരു കൂട്ടം അവകാശങ്ങളാണ് ലഭിക്കുന്നത് ട്രേഡ് മാർക്ക് നിങ്ങളുടെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾ തീർത്തും പുതിയതായ ഒരു സംരംഭത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ട്രേഡ് മാർക്ക് ഉപയോഗിക്കാം ആളുകളെ നിങ്ങളുടെ ട്രേഡ്മാർക്ക് ഉപയോഗിക്കുന്നതിൽ നിന്നും തടയുവാൻ നിങ്ങൾക്ക് സാധിക്കും ഇന്ത്യയിൽ ഒരാൾ തൻറെ കമ്പനിയുടെ ഉത്പന്നമായ അടിവസ്ത്രങ്ങൾ മെർസിഡസ് ബെൻസിൻറെ ലോഗോയ്ക്ക് സമാനമായ ആയ ബെൻസ് ട്രൈ സ്റ്റാർ ലോഗോ ഉപയോഗിക്കുന്നതിനെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നു പ്രശസ്തമായ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു കാർ നിർമ്മാണ കമ്പനിയുടെ ലോഗോയ്ക്ക് സമാനമായ ഒരു ലോഗോ ഉപയോഗിക്കുക വഴി ആ കമ്പനിയുടെ ജനപ്രീതിയും മതിപ്പും ദുരുപയോഗം ചെയ്യുകയാണ് എന്നതിൻറെ പേരിൽ അത് ഉപയോഗിക്കുന്നതിൽ നിന്നും അവരെ തടയുകയാണ് ഉണ്ടായത് തൻറെ ലോഗോ എവിടെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ട്രേഡ്മാർക്ക് ഹോൾഡറുടേതാണ് അയാൾക്ക് മറ്റുള്ളവരെ അത് ഉപയോഗിക്കുന്നതിൽ നിന്നും തടയുവാൻ സാധിക്കും ഒരു പേറ്റന്റിനോടനുബന്ധമായ അവകാശങ്ങൾ എന്ന് പറയുന്നത് കണ്ടുപിടുത്തം വിൽക്കാനോ ഉപയോഗിക്കാനോ അത് വിൽപ്പനയ്ക്ക് വെക്കാനോ ഇറക്കുമതി ചെയ്യാനോ ഉള്ള അവകാശമാണ് ഇപ്പോൾ നോക്കൂ പേറ്റന്റ് ലോയിൽ നമ്മൾ പറയുന്ന അവകാശങ്ങൾ എന്നുള്ളത് നിർമ്മാണത്തോടും കമ്പോളത്തോടും ചില സമയങ്ങളിൽ ഇറക്കുമതിയോടും ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിനെ നിർവചിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു നമ്മൾ വിവിധതരം അവകാശങ്ങൾക്ക് വിവിധതരം സബ്ജക്റ്റ് മാറ്ററാണുള്ളത് എന്നും നമ്മൾ കണ്ടു രജിസ്ട്രേഷൻ പ്രോസസും ഒരോ അവകാശങ്ങൾക്കും വ്യത്യസ്തമാണ് പേറ്റന്റ്സും ട്രേഡ് മാർക്കും കോപ്പിറൈറ്റും ഉൾക്കൊള്ളുന്ന തനതായ അവകാശങ്ങൾക്കുള്ളിലും സബ്ജക്ട് മാറ്റർ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ട് അവകാശങ്ങൾ അനുവദിച്ചു കിട്ടുന്ന കാലാവധിക്കു വ്യത്യാസമുണ്ട് ട്രേഡ് മാർക്ക് ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്കാണ് അനുവദിച്ചിരുന്നത് എന്നാൽ അവ പുതുക്കി കാലാവധി നീട്ടി എടുക്കാവുന്നതാണ് ഉദാഹരണത്തിന് കൊക്കോകോളയുടെ ട്രേഡ് മാർക്കിന് ഇപ്പോൾ ഏകദേശം നൂറു വർഷത്തെ പഴക്കമുണ്ട് ചില ട്രേഡ് മാർക്കുകൾ പുതുക്കാതിരുന്നാലോ അല്ലെങ്കിൽ ഉപയോഗിക്കാതിരുന്നാലോ അവയെ നടപ്പിൽ വരുത്തുവാൻ സാധിക്കുകയില്ല എന്നാൽ ചില വ്യവസായങ്ങൾ നൂറുവർഷങ്ങൾ വരെയും നിലനിൽക്കുകയും അവരുടെ ട്രേഡ് മാർക്കുകൾ സജീവമായി നിലനിൽക്കുകയും ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം അതിൻറെ ഉടമസ്ഥൻ കാലാകാലങ്ങളിൽ ഔദ്യോഗികമായ ഫീസ് അടച്ച് സജീവമായി അതിനെ നിർത്തുകയാണ് വ്യാവസായിക ഭാഷയിൽ ഇവയെ എന്നും നിലനിൽക്കുന്ന ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി എന്നു പറയുന്നു ഇത്തരം ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടിക്ക് പരിധികൾ ഉണ്ടാകുന്നില്ല കാരണം അവയുടെ കാലാവധി എന്ന് പറയുന്നത് അവരുടെ ഉടമസ്ഥർ അവയെ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന കാലത്തോളം എന്ന് മാത്രമേ പറയാനാകൂ അദ്ദേഹം ആകെ ചെയ്യേണ്ടത് ഇതാണ് കാലാകാലങ്ങളിൽ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന ഔദ്യോഗികമായ ഫീസ് അടയ്ക്കണം കൂടാതെ മറ്റ് ആളുകൾ ഈ അവകാശത്തെ ദുരുപയോഗം ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം അപ്പോൾ അവകാശി ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമതായി ഔദ്യോഗികമായ ഫീസ് അടയ്ക്കുക രണ്ടാമതായി ജാഗ്രത ഉള്ളവനായിരിക്കുക അതായത് തൻറെ അവകാശത്തെ ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ നടപടി എടുക്കുവാൻ ശ്രദ്ധ ഉള്ളവരായിരിക്കണം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് പ്രഷർ റൈറ്റ് നൽകിയിട്ടുണ്ട് എന്ന് ഊഹിക്കാൻ ഇടയുണ്ട് ഒരു വിദ്യാർഥിയുടെ സംശയം ഇതാണ് കൊക്കോകോള 1900 മുതൽ 2000 വരെക്കും അതിനുശേഷവും അവകാശം ഉപയോഗിക്കുന്നു അതേസമയം 10 വർഷം കൂടുമ്പോൾ പുതുക്കുകയും അഞ്ച് വർഷം കൂടുമ്പോൾ അവർ ഡിസൈൻ നവീകരിക്കുകയും ചെയ്യുന്നു എന്നാൽ 1910 ശേഷം ഒരിക്കലും നവീകരിച്ചിട്ടില്ലാത്ത ഒരു ഡിസൈൻ വേറൊരാൾക്ക് എടുത്തു ഉപയോഗിക്കുവാൻ സാധിക്കുമോ കൊക്കോകോളക്ക് അതിൻറെ കുപ്പിയിന്മേൽ ഡിസൈൻസ് ഉണ്ട് കൊക്കോകോളക്ക് ഒരുവിധത്തിൽ പറഞ്ഞാൽ കോപ്പിറൈറ്റ് അവകാശമുണ്ട് അതിൻറെ ഉൽപ്പന്നങ്ങൾ കലാപരമായി പ്രദർശിപ്പിച്ചിരിക്കുന്നതിനാൽ അവർക്ക് ട്രേഡ് മാർക്കും ഉണ്ട് ട്രേഡ് മാർക്ക് യാതൊരു സംശയവുമില്ലാതെ പറയുവാൻ സാധിക്കും അതിന് പരിധിയില്ലാത്ത ജീവിതകാലഘട്ടം ഉണ്ട് എന്ന് മറ്റുള്ള അവകാശങ്ങൾ ഒരുപക്ഷേ വരികയും പോവുകയും ചെയ്യാം ഒരു രജിസ്ട്രേഡ് ഡിസൈൻ പരിമിതമായ കാലമേ ആയുസ്സുള്ളൂ എന്നാൽ ഒരു ട്രേഡ് മാർക്ക് നമുക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും അതിന് പരിമിതികളില്ലാത്ത ആയുസ്സ് ഉണ്ട് എന്ന് അത് റൈറ്റ് ഹോൾഡർക്ക് മാത്രമേ ഉപയോഗിക്കാൻ അവകാശമുള്ളൂ അതുകൊണ്ട് ഇതൊരു സംയുക്തമാണ് അവിടെ ഒന്നിൽകൂടുതൽ അവകാശങ്ങളുണ്ട് അത് എപ്രകാരമാണോ മുന്നോട്ടുകൊണ്ടുപോകുന്നത് അതിനനുസരിച്ചായിരിക്കും അതിൻറെ പരിധിയില്ലാത്ത ആയുസ്സും മറ്റൊരു ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടിയാണ് ട്രേഡ് സീക്രട്ട്സ് ഇതും പരിധിയില്ലാത്ത ആയുസ്സുള്ള ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി യുടെ പരിധിയിൽ വരുന്നു എല്ലാ ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടികളെയും വ്യാവസായികാടിസ്ഥാനത്തിൽ രണ്ട് ഗണമായി തിരിക്കാം പരിമിതമായ ആയുസ്സുള്ള ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടികൾ അനുവദിക്കപ്പെട്ട നിശ്ചിത കാലയളവിനുശേഷം പൊതു സ്വത്തായി മാറുകയും എല്ലാ ആളുകൾക്കും അത് ഉപയോഗിക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു എന്നാൽ അപരിമിതമായ ആയുസ്സുള്ള ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടികൾ കാലാകാലങ്ങളിൽ പുതുക്കുന്ന പക്ഷം അതിനെ എന്നെന്നേക്കും നിലനിർത്തുവാൻ സാധിക്കുന്നു ലോകം മുഴുവനിലും ഒരേ സ്ഥിതിയാണ് നമുക്ക് ചില അവകാശങ്ങളുടെ ആയുസ്സും ലോകമെമ്പാടുമുള്ള അതിൻറെ സ്ഥിതിയും എന്താണ് എന്ന് പരിശോധിക്കാം ആഗോളമായി പേറ്റന്റുകൾക്ക് അത് നിലവിൽ വരുന്ന അന്നു മുതൽ 20 വർഷമാണ് കാലാവധി ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൻറെ വ്യാപാര അനുബന്ധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വ്യാപാരക്കരാർ ആയ ട്രിപ്സ് എഗ്രിമെൻറിനോട് നന്ദി പറയുന്നു വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻറെ കീഴിൽ വരുന്ന ഒരു കരാറാണ് ട്രിപ്സ് കരാർ ഓ ഒരു സ്ഥാപനമാണ് അതിന് കീഴിൽ വളരെയധികം കരാറുകൾ വരുന്നുണ്ട് ട്രിപ്സ് കരാർ ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിനെ സംബന്ധിക്കുന്ന കരാറുകളാണ് ഓ യിലെ എല്ലാ അംഗങ്ങളും ഇത് അനുവർത്തിക്കുവാൻ ബാധ്യസ്ഥരാണ് ഓ യിലെ അംഗരാജ്യങ്ങൾ എല്ലാം 20 വർഷം എന്ന കാലാവധി പാലിക്കുന്നു ഈ കരാർ വരുന്നതിനു മുൻപ് ഇങ്ങനെ ആയിരുന്നില്ല ഇന്ത്യയിൽ പേറ്റന്റിൻറെ കാലാവധി 20 വർഷം അല്ല മറിച്ച് 14 വർഷം ആയിരുന്നു ഔഷധ നിർമ്മാണ മേഖലയിൽ അത് വെറും ഏഴു വർഷമായിരുന്നു എന്തുകൊണ്ടാണ് എങ്ങനെയാണ് 20 വർഷം എന്ന കാലനിർണ്ണയം വന്നത് എന്ന് നിങ്ങൾ ഒരുപക്ഷേ ചിന്തിക്കുന്നുണ്ടായിരിക്കും 20 വർഷം എന്നുള്ളതിൻറെ പിന്നിലുള്ള യുക്തി എന്ത് എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും 20 വർഷം എന്നുള്ളത് എല്ലാ രാജ്യങ്ങളും ഒരുപോലെ പരിഗണിക്കുന്നില്ല ടെക്നോളജികൾ എല്ലാം ട്രിപ്സ് കരാർ പ്രകാരം 20 വർഷം നിലനിൽക്കുന്നു ഈ ടെക്നോളജിയുടെ ജീവിതചക്രം വെറും മൂന്നു വർഷമേ ഉള്ളൂ എങ്കിലും അതിന് 20 വർഷത്തെ സംരക്ഷണം ലഭിക്കുന്നു അപ്പോൾ പേറ്റന്റ് എന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ പോലെ ആഗോളമായി സാങ്കേതികവിദ്യ അധിഷ്ഠിതമായിട്ടുഉള്ളതല്ല അത് ഔഷധ നിർമ്മാണ രംഗത്ത് ആയിക്കൊള്ളട്ടെ വ്യോമയാന മേഖലയിൽ ആയിക്കൊള്ളട്ടെ ജൈവ സാങ്കേതിക വിദ്യയുടെ മേഖലയിൽ ആയിക്കൊള്ളട്ടെ നാല് രാജ്യങ്ങൾ ചേർന്ന് പേറ്റന്റ് അനുവദിക്കുകയാണെങ്കിൽ നാല് രാജ്യങ്ങളിലും അത് 20 വർഷത്തേക്ക് ആയിരിക്കും എനിക്കും നിങ്ങൾക്കും അറിയാം സാങ്കേതിക വിദ്യയെ സംബന്ധിച്ച് 20 വർഷം എന്നത് ബുദ്ധിപൂർവ്വമായ ഒന്നല്ല എന്ന് ചില സാങ്കേതിക വിദ്യകൾ വളരെ പെട്ടെന്ന് മാറുന്നവയാണ് 20 വർഷം കൊണ്ട് അതിൻറെ പല തലമുറകൾ വരെ ഉണ്ടായിരുന്നിരിക്കാം ചില അന്താരാഷ്ട്ര നിയമങ്ങൾ മൂലമാണ് ഈ 20 വർഷം എന്ന് കാലനിർണ്ണയം വരുവാൻ ഇടയായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വരുന്നതിനുമുൻപ് മുൻപ് ഉറുഗ്വേ റൌണ്ടിൽ വെച്ച് എട്ടുവർഷം നീണ്ട ചർച്ചകളിൽ രാജ്യങ്ങൾ പങ്കെടുത്ത് നീണ്ട നടപടിക്രമങ്ങൾക്ക് ശേഷം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വരികയും ആ സമയത്ത് ബന്ധപ്പെട്ട രാജ്യങ്ങൾ അവരുടെ താൽപര്യങ്ങൾ മുന്നോട്ടു കൊണ്ടുവരുവാൻ നടത്തിയ പരിശ്രമങ്ങൾക്കൊടുവിൽ വന്നുചേർന്ന ഒരു ക്രമീകരണമാണ് അല്ലെങ്കിൽ കരാറാണ് 20 വർഷം എന്നുള്ളത് പ്രബലമായ ഈ 20 വർഷം എന്ന കാലനിർണ്ണയം ആഗോളമായി വരുന്നതിനു മുൻപ് 14 വർഷം എന്ന രീതിയാണ് സ്വീകരിച്ചിരുന്നത് അതേ പതിനാലുവർഷം എങ്ങനെ എന്നുള്ളതിന് ചരിത്രപരമായ ഒരു വിവരണമുണ്ട് ഇംഗ്ലണ്ടിൽ ഒരു അപ്പ്രൻന്റിസിനെ പരിശീലിപ്പിച്ച് എടുക്കുന്നതിന് ഏഴ് വർഷം വേണം എന്നാണ് പറയുന്നത് പേറ്റന്റുകൾ അനുവദിക്കാൻ തുടങ്ങിയ ആദ്യകാലങ്ങളിൽ ബ്രിട്ടീഷ് രാജാക്കന്മാർ സാധാരണഗതിയിൽ ആദ്യ വർഷങ്ങളിൽ പേറ്റന്റ് അനുവദിച്ചിരുന്നില്ല അവർ സാധാരണ പ്രത്യേക അവകാശങ്ങൾ മാത്രമാണ് അനുവദിച്ചിരുന്നത് യൂറോപ്പിൽ നിന്നും പ്രത്യേക സിദ്ധികൾ ഉള്ള കരകൌശല വിദഗ്ദ്ധരെ ആകർഷിച്ചു തങ്ങളുടെ രാജ്യത്ത് വ്യവസായം തുടങ്ങുവാൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി രാജാവോ രാജ്ഞിയോ അവർക്ക് പ്രത്യേക അവകാശങ്ങൾ ആണ് അനുവദിച്ചു കൊടുത്തിരുന്നത് ഒന്നു ഊഹിച്ചു നോക്കൂ ഈ കരകൌശല വിദഗ്ധരിൽ ചിലർ സോപ്പ് നിർമ്മാണം നടത്തുന്നു ചിലർ ഗ്ലാസ് വെയർ നിർമ്മിക്കുന്നു മറ്റു ചിലർ സുഗന്ധദ്രവ്യങ്ങൾ നിർമ്മിക്കുന്നു അങ്ങനെ പല പ്രത്യേക വസ്തുക്കളും നിർമ്മിക്കുന്നു ഇവരുടെ നിർമ്മിതികൾക്ക് പ്രത്യേക അവകാശങ്ങൾ അഥവാ പ്രത്യേക സംരക്ഷണങ്ങൾ നൽകുന്നില്ല എങ്കിൽ എന്തായിരിക്കും അവരുടെ സ്ഥിതി മറ്റു അനേകം ആളുകൾ അത് പകർത്തി സ്വന്തം വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുകയില്ലേ ഇതാണ് പേറ്റന്റ് ലോ യുടെ ചരിത്രം പ്രത്യേക സിദ്ധികൾ ഉള്ള ആളുകൾക്ക് ചില പ്രത്യേക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു ഈ സമയത്ത് നമ്മൾ ഒരിക്കലും കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് സംസാരിച്ചിരുന്നില്ല നമ്മൾ ഒരിക്കലും സാങ്കേതികവിദ്യയെക്കുറിച്ച് സംസാരിച്ചിരുന്നില്ല ചില ആളുകൾക്ക് പ്ലെയിംങ് കാർഡ് ഇറക്കുമതി ചെയ്യാനുള്ള പ്രത്യേകത അവകാശങ്ങൾ ഉണ്ടായിരുന്നു രാജാവിൻറേയും രാജ്ഞിയുടെയും റോയൽ പ്രിവിലെജ് ആയിരുന്നു ആളുകൾക്ക് പ്രത്യേക അവകാശങ്ങൾ അനുവദിച്ചു കൊടുക്കുക എന്നത് ധാതു ഖനനത്തിന് അവർ ചിലർക്കൊക്കെ ഇപ്രകാരം അവകാശങ്ങൾ നൽകിയിരുന്നു നമ്മുടെ രാജ്യത്ത് വളരെ കാലം ബ്രിട്ടീഷുകാരാണ് ഭരിച്ചിരുന്നത് എന്ന് നമുക്കറിയാം ഈസ്റ്റിന്ത്യാ കമ്പനി പേറ്റൻറ് ചാർട്ടറുമായി വന്നു ഈ പേറ്റൻറ് ചാർട്ടർ ഒരു പ്രത്യേക അവകാശ അനുമതി പത്രികയായിരുന്നു നമ്മുടെ രാജ്യത്ത് വ്യാവസായിക സംരംഭം തുടങ്ങാനുള്ള സാധ്യതകളെക്കുറിച്ച് പഠിക്കുവാനുള്ള അവകാശപത്രിക എന്നിട്ട് ഉണ്ടായത് നമുക്കറിയാം അവർ ഇവിടെ വരികയും കോളനികൾ സ്ഥാപിക്കുകയും നമ്മുടെ രാജ്യത്തെ അവരുടെ ഒരു കോളനി ആക്കി മാറ്റുകയും ചെയ്തു അവർ കൊണ്ടുവന്ന ധാരണാപത്രത്തിൻറെ ഒറിജിൻ എന്ന് പറയുന്നത് അവരുടെ ഭരണാധികാരി അവർക്ക് നൽകിയ എക്സ്ക്ലൂസീവ് പ്രിവിലേജ് ആയിരുന്നു അഥവാ പ്രത്യേക അവകാശമായിരുന്നു ഈ എക്സ്ക്ലൂസീവ് പ്രിവിലേജ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ഒരു സാങ്കേതിക വിദഗ്ധനോ ഒരു കലാകാരനോ ഈ എക്സ്ക്ലൂസീവ് പ്രിവിലേജ് നൽകുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് സോപ്പ് നിർമിക്കാൻ അനുമതി നൽകുമ്പോൾ രാജാവോ രാജ്ഞിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ സാങ്കേതിക വിദഗ്ധനോടോ കലാകാരനോടോ 2 ബ്രിട്ടീഷ് പൌരന്മാരെ അവരുടെ കീഴിൽ പരിശീലിപ്പിക്കാൻ ആവശ്യപ്പെടും കാരണം ബ്രിട്ടീഷ് പൌരന്മാർ പരിശീലനം സിദ്ധിച്ചു കഴിഞ്ഞാൽ സ്വഭാവികമായും സ്വന്തം വ്യവസായങ്ങളും കടകളും ആരംഭിക്കും ഇതായിരുന്നു അന്നാളുകളിൽ സാങ്കേതികവിദ്യ അല്ലെങ്കിൽ പ്രത്യേക സിദ്ധികൾ കൈമാറ്റം ചെയ്യപ്പെടാനുള്ള ഒരു വഴി അതുകൊണ്ട് പ്രത്യേക അവകാശങ്ങൾ നൽകുന്നത് അപ്പ്രന്റിസുകളെ പരിശീലിപ്പിക്കുന്നതിന് പകരമായിട്ടാണ് ഒരാൾ തൊഴിൽ പരിശീലിക്കുന്നതിന് സാധാരണ ഏഴ് വർഷം എടുക്കുന്നു ഇങ്ങനെ രണ്ടാളെ പരിശീലിപ്പിക്കുന്നതിന് 7 7 14 വർഷം ട്രിപ്പ്സ് കരാറിന് മുൻപ് 14 വർഷം എന്ന ധാരണ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനുള്ള ഒരു വിശദീകരണം ആണ് ഇത് ട്രിപ്സ് കരാറിന് ശേഷമാണ് ആഗോളവ്യാപകമായി വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അംഗരാജ്യങ്ങൾ 20 വർഷം എന്ന ധാരണയിലെത്തുകയും സാങ്കേതികവിദ്യയുടെ മേഖല പരിഗണിക്കാതെ തന്നെ 20 വർഷം എന്ന് നിശ്ചയിക്കുകയും ചെയ്തത് പേറ്റന്റ് അനുവദിക്കുന്നതു മുതൽ 20 വർഷം എന്നതാണ് നിയമം ഇന്ത്യയിൽ കോപ്പിറൈറ്റ് കാലാവധി നിർണയിക്കുന്നത് ഗ്രന്ഥകർത്താവിൻറെ ജീവിത കാലത്തോടൊപ്പം ശേഷമുള്ള 60 വർഷം കൂടി ചേർത്തിട്ടാണ് അപ്പോൾ ഒരു ഗ്രന്ഥകർത്താവ് വളരെ ചെറുപ്രായത്തിൽ തന്നെ ഒരു ഗ്രന്ഥം രചിക്കുകയും അദ്ദേഹം വളരെ ദീർഘമായ കാലം ജീവിച്ചിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻറെ പുസ്തകത്തിന് വളരെ ദീർഘമായ ഒരു കാലഘട്ടം കോപ്പിറൈറ്റ് ആയി ലഭിക്കുന്നു ഞാൻ കരുതുന്നത് 2009ലാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ എല്ലാ കൃതികളും പകർപ്പവകാശം ഇല്ലാതെ പൊതു സഞ്ജയത്തിലേക്ക് മാറ്റപ്പെട്ടത് 2008 ലാണ് അദ്ദേഹത്തിൻറെ മരണത്തിൻറെ 60 വർഷം പൂർത്തിയായത് എന്ന് ഞാൻ കരുതുന്നു ഒരിക്കൽ കൂടി പറയുന്നു കോപ്പിറൈറ്റ് കാലഘട്ടം ഒരു ഗ്രന്ഥകർത്താവിൻറെ ജീവിത കാലഘട്ടവും അതിനുശേഷം 60 വർഷവുമാണ് ഗ്രന്ഥകർത്താവ് ഒരു വ്യക്തിയല്ല ഒരു സ്ഥാപനമാണെങ്കിൽ പുസ്തകം പ്രസിദ്ധം ചെയ്തതിനുശേഷം 60 വർഷം എന്നതാണ് കണക്ക് ട്രേഡ്മാർക്ക് കാലഘട്ടം എന്ന് പറയുന്നത് പത്ത് വർഷത്തേക്കാണ് അനുവദിച്ചു നൽകുന്നത് എല്ലാ 5 വർഷം കൂടുമ്പോഴും അത് പുതുക്കി എടുക്കാവുന്നതാണ് ഇത്രയുമാണ് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് അവയെ രണ്ടു വിശാല ഗണങ്ങളായി തിരിക്കാം ഒന്ന് ലിമിറ്റഡ് ലൈഫ് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഇതിൽ പെടുന്നതാണ് കോപ്പിറൈറ്റുകളും പേറ്റന്റുകളും രണ്ടാമത്തെത് അൺലിമിറ്റഡ് ലൈഫ് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഇതിൽ പെടുന്നതാണ് ട്രേഡ് മാർക്കുകളും ട്രേഡ് സീക്രട്ട്സും